ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ II പാർട്ട് 4 ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ ഭാഗം II പ്രത്യേകിച്ച് ലൈൻ പ്രൊജക്ഷനുകൾ എന്നിവ ഈ മൊഡ്യൂൾ 4 ലെ പ്രഭാഷണ നമ്പർ 34 ൽ ഉൾക്കൊള്ളുന്നു നേരത്തെ നമ്മൾ നോക്കാൻ ശ്രമിച്ചത് ഒരു ലൈൻ ഒരു പ്ലെയിന് സമാന്തരമാണെങ്കിൽ മറ്റ് പ്ലെയിനുമായി ബന്ധപ്പെട്ട് ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ആ രേഖകൾ എങ്ങനെ വരയ്ക്കാം

അത് ആദ്യത്തെ ക്വാഡ്രന്റ് രണ്ടാമത്തെ ക്വാഡ്രന്റ് മൂന്നാമത്തെയോ നാലാമത്തെയോ ക്വാഡ്രന്റിലാണെങ്കിലും അതിന്റെ പ്രൊജക്ഷനുകൾ നോക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഇവിടെ നിബന്ധനകളിലൊന്ന് ഒരു പ്ലെയിന് സമാന്തരമാണ് അത് ലംഘിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ലംബ തലം തിരശ്ചീന തലം plane എന്നിവയോട് വ്യത്യസ്ത കോണുകളിൽ ചെരിഞ്ഞ ഒരു ലൈൻ അതിന്റെ പ്രൊജക്ഷനുകൾ എങ്ങനെ വരയ്ക്കാം അവിടെ നമ്മൾ വ്യത്യസ്ത ചോദ്യങ്ങൾ ചോദിക്കും ഒരു ലൈൻ അറിയാമെങ്കിൽ അത് പ്ലെയിനുകളുമായി നിർമ്മിക്കുന്ന ആംഗിൾ ആണ് പ്രൊജക്ഷനുകൾ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്കറിയാം രണ്ടാമത്തെ ചോദ്യം ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രൊജക്ഷനുകൾ അറിയാമെങ്കിൽ ആ ലൈൻറെ യഥാർത്ഥ നീളം എങ്ങനെ കണ്ടെത്താം അതിനാൽ രണ്ടാമത്തെ ചോദ്യം പ്രൊജക്ഷനുകൾ അറിയുന്നതിലൂടെയും യഥാർത്ഥ നീളം നേടുന്നതിലൂടെയും എല്ലായ്പ്പോഴും ചെറിയ സങ്കീർണതകളുണ്ട് കേസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് നിർമ്മിച്ച യഥാർത്ഥ നീളവും ഇൻക്ക്ളിനേഷൻ ആംഗിളും നമുക്കറിയാം അങ്ങനെ നമുക്ക് പ്രൊജക്ഷനുകൾ നിർമ്മിക്കാൻ കഴിയും രണ്ട് കേസുകളും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ ശ്രമിക്കും നമുക്ക് ആരംഭിക്കാം നമുക്ക് AB ലൈൻ തിരഞ്ഞെടുക്കാം ഈ A മുഴുവനായും താഴേക്ക് പ്രൊജക്റ്റുചെയ്യുന്നതിലൂടെ നമുക്ക് തിരശ്ചീന തലത്തിൽ a ലഭിക്കുന്നു B ലംബമായി താഴേയ്ക്ക് പ്രൊജക്റ്റുചെയ്യുന്നതിലൂടെ നമുക്ക് b ലഭിക്കുന്നു ഇതാണ് പ്രൊജക്ഷൻ തിരശ്ചീന തലത്തിൽ ഇത് ഒരു ആംഗിൾ ബീറ്റ അല്ലെങ്കിൽ തീറ്റ ഉണ്ടാക്കുന്നു അതുപോലെ നമുക്ക് 2 ലംബ പ്ലെയിനുകളിൽ AB പോയിന്റുകൾ പ്രൊജക്റ്റ് ചെയ്യാം അത് a ഉം bയും ഉണ്ടാക്കുന്നു അതിനാൽ പ്രൊജക്ഷൻ ലൈൻ ഇതാണ് തിരശ്ചീന തലവുമായി ബന്ധപ്പെട്ട് ഇത് നോക്കുമ്പോൾ ഇത് ഒരു ആംഗിൾ ആൽഫ അല്ലെങ്കിൽ ഫൈ ഉണ്ടാക്കുന്നു ഈ രണ്ട് കോണുകളും ബീറ്റ അല്ലെങ്കിൽ തീറ്റ ഈ രണ്ട് കോണുകളും വ്യത്യസ്തമായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ലൈൻറെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാം അതിനർത്ഥം നമുക്ക് ലംബമായ തലത്തിൽ a b വരയ്ക്കാനും a b എന്ന് പ്രൊജക്റ്റ് ചെയ്യാനും കഴിയുമോ ab അല്ലെങ്കിൽ ab ഒരു യഥാർത്ഥ നീളമല്ല യഥാർത്ഥ നീളം എല്ലായ്പ്പോഴും ab ആണ് അതിനാൽ എനിക്ക് പ്രൊജക്ഷനുകൾ അറിയാമെങ്കിൽ ആ വിപരീത പ്രശ്നം എങ്ങനെ നേടാം അല്ലെങ്കിൽ ഈ കോണുകളും യഥാർത്ഥ ദൈർഘ്യങ്ങളും എനിക്കറിയാമെങ്കിൽ എനിക്ക് ab എങ്ങനെ ലഭിക്കും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ അതിനാൽ ലംബമായ തലം അനുബന്ധമായി ഈ യഥാർത്ഥ നീളമുള്ള AB നിർമ്മിച്ച ആംഗിൾ നമുക്ക് ടോപ് വ്യൂവിൽ ലഭിക്കും തിരശ്ചീനമായി ഈ യഥാർത്ഥ നീളം കൊണ്ട് നിർമ്മിച്ച ആംഗിൾ ആ ലംബ തലത്തിൽ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ അത് കാണും ഈ ദിശകളാണ് നമ്മൾ കാണുന്നത് ഉദാഹരണത്തിന് തിരശ്ചീനവുമായി അനുബന്ധമായി ഈ ആംഗിൾ നമ്മൾ ഇവിടെ കാണും കൂടാതെ ഈ കോണിൽ ലംബവുമായി ബന്ധപ്പെട്ട് പ്രൊജക്റ്റുചെയ്തത് ഏത് കോണാണ് ഈ ലംബ തലം ഇന്റർസെക്ക്ട് ചെയ്യാൻ പോകുന്നത് ആ ആംഗിൾ എന്തുതന്നെയായാലും നമ്മൾ അത് ഇവിടെ ബീറ്റയായി കാണാൻ പോകുന്നു നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഇല്ലാതിരിക്കുമ്പോൾ യഥാർത്ഥ നീളം എങ്ങനെ കണ്ടെത്താം അതിനായി നമുക്ക് ഈ കഥ ആരംഭിക്കാം ഇതിനകം ഈ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും നമ്മൾ അറിഞ്ഞിരിക്കാം അവിടെ നിന്ന് ഈ യഥാർത്ഥ നീളം നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിനകം തന്നെ ab അറിയാമെന്ന് കരുതുക നമുക്ക് അറിയാം കാരണം നമുക്ക് ab നിർമ്മിക്കണമെങ്കിൽ ഇത് a ദൂരം സ്ഥിതിചെയ്യുന്നുവെന്ന് അറിയേണ്ടതുണ്ട് അപ്പോൾ അത് നിർമ്മിക്കുന്ന ആംഗിൾ എന്താണ് അവസാന ക്ലാസിൽ നമ്മൾ പഠിച്ചതെന്താണ് അത് നിർമ്മിച്ച ആംഗിൾ നമ്മൾ മുന്നോട്ട് പോകുന്നു കട്ട് ചെയ്യുന്നു അവിടെ b ഉണ്ടാക്കുന്നു അതുപോലെ a പ്രോജക്റ്റ് ചെയ്യുക അതിനാൽ ഈ ലംബ തലത്തിന് മുന്നിൽ അത് എത്ര ദൂരെയാണെന്ന് നമുക്ക് ലഭിക്കും b പ്രോജക്റ്റ് ചെയ്യുക എന്നിട്ട് അത് തിരിക്കുക അത് ഏത് ആംഗിളിൽ നിർമ്മിച്ചാലും നമ്മൾ അത് കണ്ടെത്തും അതിനാൽ എങ്ങനെയെങ്കിലും ഈ ഫ്രണ്ട് വ്യൂവും ഈ ടോപ് വ്യൂവും നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു യഥാർത്ഥ നീളം നിർമ്മിക്കാൻ പോകുന്നത് ab ഉപയോഗിക്കുക b 2 ലൈനുകൾ നിർമ്മിക്കുന്ന രീതിയിൽ തിരിക്കുക AB വ്യക്തമാണ് ab ഉം വ്യക്തമാണ് എങ്ങനെയോ നമ്മൾ ഇതിനകം ab AB എന്നിവ നിർമ്മിച്ചു ab ഉപയോഗിക്കാൻ നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ b2 കണ്ടെത്തുന്നതിന് തിരശ്ചീന തലത്തിലേക്ക് തിരികെ പ്രൊജക്റ്റ് ചെയ്യുക ഇത് ab2 ലൈൻ ലഭിക്കുന്നത് പോലെയാണോ ഒരിക്കൽ ഈ ab2 ലൈൻ അറിഞ്ഞാൽ നമ്മൾ അതിനെ വീണ്ടും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു ab ലൈൻ ഇതിനകം അറിയാം അതിനാൽ b1 ലഭിക്കാൻ b ലൈൻ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നു b1 ലഭിച്ചുകഴിഞ്ഞാൽ a b1 തമ്മിൽ ബന്ധിപ്പിക്കുന്നു അതാണ് യഥാർത്ഥ നീളം ഇതുവഴി നമ്മൾ ഈ യഥാർത്ഥ നീളം നിർമ്മിക്കുന്നു 3 ഡിയിൽ ഈ പ്രൊജക്റ്റെഡ് നീളം ഉള്ളപ്പോൾ ഇത് കൂടുതൽ സമാനമാണ് നമുക്ക് ഇതിനകം AB ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് തിരശ്ചീന ദിശയിൽ തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അതിനർത്ഥം ഈ നീളം നമ്മൾ തിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് അടയാളപ്പെടുത്താൻ നമുക്കാകും തുടർന്ന് അത് മുകളിലേക്ക് മാറ്റുക എന്നിട്ട് ഈ ലൈൻ നീട്ടുക അങ്ങനെ ആ യഥാർത്ഥ ലൈൻ നിർമ്മിക്കാനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും തുടർന്ന് അത് തിരികെ തിരിക്കുക തുടർന്ന് ആ AB ലൈൻ ലഭിക്കുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും ഇതാണ് നമ്മൾ നിർമ്മിക്കുന്ന രീതി ജ്യാമിതീയമായി അതേ നടപടിക്രമം ഇവിടെ നമ്മൾ അത് ചെയ്യുന്നു അങ്ങനെ തിരിക്കുന്നതിലൂടെ എനിക്ക് ab2 ലഭിക്കും തുടർന്ന് ab2 മുകളിലേക്ക് മാറ്റുക തുടർന്ന് ഈ ലൈൻ നീട്ടി ഇത് നേടുക ഇതാണ് യഥാർത്ഥ നീളം ആദ്യം ടോപ് വ്യൂ തിരിക്കുന്നു XY ലൈനിന് സമാന്തരമായി നിർമ്മിച്ചിരിക്കുന്നത് അനുബന്ധ ഫ്രണ്ട് വ്യൂ ab1 ആണ് നമുക്ക് അത് ab1 ലഭിക്കും അത് തിരശ്ചീന തലം plane ഉപയോഗിച്ച് യഥാർത്ഥ നീളവും യഥാർത്ഥ ഇൻക്ക്ളിനേഷൻ ആംഗിളും കാണിക്കുന്നു നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം ശരിയായ നീളം അറിയുമ്പോൾ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും എങ്ങനെ കണ്ടെത്താം അതിനാൽ ആ ആവശ്യത്തിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് യഥാർത്ഥ നീളം അറിയാം കൂടാതെ ലംബമായ തലം തിരശ്ചീന തലം plane എന്നിവ ഉപയോഗിച്ച് യഥാർത്ഥ നീളം നിർമ്മിച്ച ഇൻക്ക്ളിനേഷൻ ആംഗിളും നമുക്കറിയാം ഇത് വളരെ നേരെയുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ എന്തു ചെയ്യും ലംബ തലം തിരശ്ചീന തലം എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച യഥാർത്ഥ നീളവും കോണും നമുക്കറിയാം അതിനാൽ ലംബ തലം ആംഗിൾ ഉപയോഗിച്ച് ടോപ് വ്യൂവിൽ നമ്മൾ എന്ത് കാണും തിരശ്ചീന തലം plane കോണും ഫ്രണ്ട് വ്യൂവിൽ കാണും അതിനാൽ യഥാർത്ഥ നീളം ലംബ തലം ഉപയോഗിച്ച് തീറ്റ ആംഗിൾ ഉപയോഗിച്ച് നമുക്കറിയാം ഒരിക്കൽ നമ്മൾ യഥാർത്ഥ നീളം അറിയുന്നു നമുക്കറിയാവുന്ന ab നിർമ്മിക്കുന്നു അത് ചെയ്തു അതുപോലെ ab ഉം നമുക്ക് യഥാർത്ഥ നീളം അറിയാം നമ്മൾ അത് നിശ്ചിത ആംഗിൾ ഫൈ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു ഈ യഥാർത്ഥ നീളം അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇത് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു ഇത് പൂർത്തിയാകുമ്പോൾ ഒരു ഫ്രീ ആംഗിൾ നിർമ്മിക്കുന്നതിനായി നമ്മൾ അതിനെ 90 ഡിഗ്രി തിരിക്കും അതിനാൽ അത് ആ പോയിന്റ് ഇൽ ഇന്റർസെക്ക്ട് ചെയ്യാൻ പോകുന്നു കൂടാതെ യഥാർത്ഥ നീളവും ടോപ് വ്യൂവും നിർമ്മിക്കാനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും അതിനാൽ നമുക്ക് ഇത് വീണ്ടും ചെയ്യാം ഈ യഥാർത്ഥ നീളം ab1 നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ യഥാർത്ഥ ദൈർഘ്യ ലൈൻ നിർമ്മിക്കാൻ പോകുന്നിടത്ത് ടോപ്പ് വ്യൂ ലൈനിലേക്ക് ഒരു ആംഗിൾ ഫൈ നിർമ്മിക്കുന്ന രീതിയിൽ തിരിക്കുക ഈ ab നിർമ്മിക്കാനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും ab ലൈൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇതിനകം തന്നെ യഥാർത്ഥ ദൈർഘ്യ ലൈൻ അറിയാമെങ്കിൽ നമ്മൾ അത് മുകളിലേക്കു പ്രൊജക്റ്റ് ചെയ്യുന്നു തുടർന്ന് ഇത് തിരിക്കുന്നു അതിനാൽ ഈ ടോപ് വ്യൂ നിർമ്മിക്കാനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും A HPക്ക് മുകളിൽ 12 മില്ലീമീറ്ററും VP ക്ക് മുന്നിൽ 10 മില്ലീമീറ്ററുമാണ് ഒന്നാമതായി ഈ പോയിന്റ് ദൃശ്യവൽക്കരിക്കുക AB ആദ്യ ക്വാഡ്രന്റിലും HPക്ക് മുകളിൽ 12 മില്ലിമീറ്ററിലും VPക്ക് മുന്നിൽ 10 മില്ലീമീറ്ററിലും ആയിരിക്കാം കൂടാതെ ഈ യഥാർത്ഥ ലൈൻ 75 മില്ലീമീറ്റർ അത് ആ സ്ഥാനത്ത് നിന്ന് ഏത് ദിശയിലേക്കും ആകാം 70 75 മില്ലീമീറ്റർ പക്ഷേ ഇത് തിരശ്ചീന തലത്തിലേക്ക് 30 ഡിഗ്രിയും ലംബ തലത്തിലേക്ക് 40 ഡിഗ്രിയും ഉണ്ടാക്കണം ആ ദിശയിലൂടെയാണ് നമ്മൾ b പോയിന്റ് കണ്ടെത്തുന്നത് ക്ഷമിക്കണം നമുക്ക് പരിഹാരം നോക്കാം ഒന്നാമതായി നമ്മൾ XY ലൈൻ വരയ്ക്കണം നമുക്ക് ഈ XY ലൈൻ വരയ്ക്കാം തുടർന്ന് a നായി XY ലൈനിന് മുകളിൽ 12 മില്ലീമീറ്റർ കണ്ടെത്തുക നമ്മൾ 12 മില്ലീമീറ്റർ കണ്ടെത്തുന്നു കൂടാതെ XY ലൈനിന് താഴെ 10 മില്ലീമീറ്റർ നമ്മൾ ആ തിരശ്ചീന പ്രൊജക്ഷൻ തിരിക്കാൻ പോകുന്നതിനാൽ അതിന് താഴെ 10 മില്ലീമീറ്റർ ആയിരിക്കും കാരണം അത് VPയുടെ മുന്നിലുള്ള ദിശയാണ് നമ്മൾ അത് തിരിക്കാൻ പോകുന്നത് അതിനാൽ നമ്മൾ ഇത് കണ്ടെത്തി a നമുക്ക് മറ്റെന്തെങ്കിലും കളർ മജന്ത ഉപയോഗിക്കാം a നമുക്കറിയാം a നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തിരശ്ചീന തലവുമായി ബന്ധപ്പെട്ട് 30 ഡിഗ്രിയാണ് അത് ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണും അതിനാൽ aൽ നിന്ന് 30 ഡിഗ്രി ആംഗിൾ എടുക്കുക അതിനാൽ 30 ഡിഗ്രി ആംഗിൾ നമ്മൾ ഒരു ലൈൻ വരക്കുക അതിൽ യഥാർത്ഥ നീളം 75 മില്ലീമീറ്റർ അടയാളപ്പെടുത്താൻ നമ്മൾക്കാകും അതിനാൽ 75 മില്ലീമീറ്റർ ലൈൻ നമ്മൾ 30 ഡിഗ്രി കോണിൽ വരയ്ക്കും അതിനെ 1 b1 എന്ന് വിളിക്കുന്നു അതുപോലെ 40 ഡിഗ്രി ആംഗിൾ തിരഞ്ഞെടുത്ത് ഈ 75 മില്ലീമീറ്റർ നീളം കണ്ടെത്തുക അതിനാൽ a ൽ നിന്ന് രണ്ട് ലൈനുകളും 40 ഡിഗ്രി കോണിലൂടെ 75 മില്ലീമീറ്റർ ഇൽ വരയ്ക്കുക അതിനാൽ b1 b1 എന്നിവ നമ്മൾ കണ്ടെത്തും ഇപ്പോൾ ഈ യഥാർത്ഥ ദൈർഘ്യത്തിന്റെ തിരശ്ചീന ഘടകം വരയ്ക്കേണ്ടതുണ്ട് അതിനാൽ ഇതിനെ നമുക്ക് ഒരു യഥാർത്ഥ നീളം എന്ന് വിളിക്കാം ഇതും യഥാർത്ഥ ദൈർഘ്യ രേഖകളാണ് യഥാർത്ഥ നീളം ab1 ന്റെ തിരശ്ചീന ഘടകം ലഭിച്ചുകഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് b1 ൽ നിന്ന് വരയ്ക്കാൻ പോകുന്നു അതിനാൽ പോയിന്റ് b1 ൽ നിന്ന് തിരശ്ചീന ഘടകം ab1 ലഭിക്കുന്നതിന് ഇത് മുഴുവൻ പ്രൊജക്റ്റ് ചെയ്യുക അതിനുശേഷം പേര് നൽകുക a1 നീളം അതുപോലെ തന്നെ b1 ഉം തിരശ്ചീന ഘടകം 1 1 എന്നിവയിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യാം നമ്മൾ a1 നോക്കുകയാണെങ്കിൽ ഈ a1 നീളം നമ്മൾ തിരിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു കോമ്പസ് തിരഞ്ഞെടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക അത് ഈ പോയിന്റിലൂടെ ഈ a1 വഴി പോകുന്നു അതുപോലെ ഇത് ആ ദിശയിൽ റേഡിയലായി പ്രൊജക്റ്റ് ചെയ്യുക അതിനാൽ ഇത് മറ്റൊരു ആർക്ക് ഉണ്ടാക്കുന്നു a യുടെ ലോക്കസ് വരെ നീട്ടി a കേന്ദ്രമായി തിരിക്കുക കാണിച്ചിരിക്കുന്നതുപോലെ b കണ്ടെത്തുക തുടർന്ന് ഫ്രണ്ട് വ്യൂവിൽ ab യോജിപ്പിക്കുക അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഈ രീതിയിൽ ഭ്രമണം ചെയ്യാൻ പോകുന്നു ഈ b കണ്ടെത്തുന്നതിന് b1 ഒരു രേഖ നീട്ടുന്നു അതുപോലെ ഈ b1 നമ്മൾ b കണ്ടെത്തുന്ന രീതിയിൽ രേഖ നീട്ടുന്നു ഈ പോയിന്റുകൾ അറിഞ്ഞുകഴിഞ്ഞാൽ ഈ ലൈൻ നീട്ടുന്നതിലൂടെ b പോയിന്റ് കണ്ടെത്താം ഇവിടെ നമുക്ക് കുറച്ച് നീല നിറം ഉപയോഗിക്കാം ആ ലൈൻ നീട്ടുന്നതിലൂടെ b കണ്ടെത്താനാകും അപ്പരെന്റ് നീളം ലഭിക്കുന്നതിന് നമുക്ക് ഇത് ബന്ധിപ്പിക്കാൻ കഴിയും ഇത് a ഇത് a അതിനാൽ ഇത് ടോപ് വ്യൂ ആയിരിക്കും ഇത് സിസ്റ്റത്തിന്റെ ടോപ്പ് വ്യൂ ആയിരിക്കും നമുക്ക് ഇത് വീണ്ടും ആവർത്തിക്കാം ആദ്യം ഒരു ആംഗിൾ നിർമ്മിക്കുന്ന ഈ യഥാർത്ഥ ലൈൻ നമ്മൾ തിരിച്ചറിയണം അതുപോലെ ഒരു ആംഗിൾ നിർമ്മിക്കുന്ന യഥാർത്ഥ ലൈൻ തിരിച്ചറിയുക തുടർന്ന് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക അത് തിരിക്കുക അതുപോലെ തന്നെ ഇത് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് തിരിക്കുക ഇതിനകം തന്നെ ഈ പ്രൊജക്ഷൻ b1 കട്ട് ആക്കുന്നതിനായി ഇത് നീട്ടുന്നുവെന്ന് നമുക്കറിയാം ഇത് ഒരു കട്ട് ഉണ്ടാക്കാൻ നീട്ടുന്നുവെന്ന് നമുക്കറിയാം അത് ചെയ്തുകഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും ലഭിക്കുന്നതിന് നമ്മൾ ഈ ലൈനുകൾ ബന്ധിപ്പിക്കുന്നു ഡ്രോയിംഗ് ഷീറ്റിൽ ഈ ഉദാഹരണം പരിശീലിക്കാം അതിനുശേഷം നമ്മൾ സംഗ്രഹിക്കും അതിനാൽ ഒരു പരിശീലനമെന്ന നിലയിൽ ആദ്യം ഒരു XY ലൈൻ വരയ്ക്കുക ഇതാണ് XY ലൈൻ 75 മില്ലീമീറ്റർ യഥാർത്ഥ ലൈൻ തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി അതിനായി XY ലൈനിന് 12 മില്ലീമീറ്റർ മുകളിലുള്ള a പോയിന്റ് നമ്മൾ കണ്ടെത്തണം ഇത് X ആക്സിസ് ആണ് ഇതാണ് Y ആക്സിസ് എവിടെയെങ്കിലും നമ്മൾ 12 മില്ലീമീറ്റർ കണ്ടെത്തണം അതിനാൽ 10 11 12 ഇവിടെ എവിടെയോ അതിനാൽ ഇതിനെ നമുക്ക് aഎന്ന് വിളിക്കാം aൽ നിന്ന് 30 ഡിഗ്രി ആംഗിൾ എടുക്കണം അതിനാൽ നമുക്ക് ഇവിടെ ഒരു തിരശ്ചീന ലൈൻ വരയ്ക്കാം കൂടാതെ ഈ ലൈനിൽ ചേരാൻ 30 ആംഗിൾ കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ കണ്ടെത്തേണ്ടത് 75 മില്ലീമീറ്ററാണ് ആ പോയിന്റ് കണ്ടെത്തുക ഇതാണ് നമ്മുടെ യഥാർത്ഥ നീളം അതിനാൽ b1 ൽ യോജിപ്പിക്കുക ഈ ലൈനുകൾ യോജിപ്പിക്കുക അതുപോലെ നമുക്ക് ആ യഥാർത്ഥ ലൈൻ താഴേക്കുള്ള ദിശയിൽ കണ്ടെത്താം അതിനായി നമ്മൾ പോയിന്റ് a പ്രോജക്റ്റ് ചെയ്യണം അത് XY ലൈനിന് 10 മില്ലീമീറ്റർ താഴെയായിരിക്കണം അതിനാൽ ഇത് a പോയിന്റായിരിക്കും അത് തിരശ്ചീനമായി 40 ഡിഗ്രി ഉണ്ടാക്കണം 30 40 എവിടെയോ അതിനാൽ ഈ രേഖ യോജിപ്പിക്കുകയാണെങ്കിൽ അത് ആ രീതിയിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു ഈ പോയിന്റിനെ b1 എന്ന് വിളിച്ച് ഇതിൽ യോജിപ്പിക്കുക നമുക്ക് ഈ പ്രൊജക്ഷനുകൾ ഉള്ളപ്പോൾ b1b1 വ്യത്യസ്തമാകുമെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ യഥാർത്ഥ നീളം പൂർത്തിയായി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ യഥാർത്ഥ ലൈൻ താഴേയ്ക്ക് പ്രൊജക്റ്റുചെയ്യുക സമാന്തരമായി താഴേക്ക് നീങ്ങുക എന്നതാണ് അതുപോലെ ഈ ലൈൻ സമാന്തരമായി പ്രോജക്റ്റ് ചെയ്യുക അതിനാൽ ഈ പ്രൊജക്ഷനിൽ നമുക്ക് കൈമാറേണ്ട ഒന്ന് അടയാളപ്പെടുത്തുക നമുക്ക് അത് 1 1 എന്ന് അടയാളപ്പെടുത്താം അതിനാൽ ഈ നീളം ആ രീതിയിൽ കൈമാറുക അതുപോലെ ഈ നീളം കൈമാറുക കാരണം അത് ഇവിടെ ഒരു കാര്യത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിനാൽ നമ്മൾ ഈ ഘട്ടത്തിൽ തന്നെ ഇത് പ്രൊജക്റ്റ് ചെയ്യണം അതിനാൽ ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുക ഒരിക്കൽ നമ്മൾ ആർക്കുകൾ സൃഷ്ടിച്ചുകഴിഞ്ഞാൽ ഈ യഥാർത്ഥ ലൈനുകൾ വിപുലീകരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പമാണ് ഇത് യഥാർത്ഥ ലൈനുകൾയായിരിക്കണം അത് b1 ൽ നിന്ന് ആ രീതിയിൽ നീട്ടുക അതുപോലെ ഇന്റർസെക്ക്ട് ചെയ്യാൻ പോകുന്ന ആർക്കുകൾ അടയാളപ്പെടുത്തുക അതിനാൽ ഇത് ഇന്റർസെക്ക്ട് ചെയ്യും അവിടെ ഈ ലൈൻ യോജിപ്പിക്കുക ഇത് 1b വ്യക്തമാകും അതുപോലെ ഈ നീളം തിരിക്കുന്ന തരത്തിൽ നമ്മൾ b1 നീട്ടണം അതിനാൽ ഇത് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നു എങ്കിൽ നമ്മൾ ആ ലൈനിൽ യോജിപ്പിക്കുകയാണെങ്കിൽ ഇത് ab ആയിരിക്കും ആ നീളമെന്താണെന്ന് നമുക്ക് കണ്ടെത്താം അതിനാൽ പ്രൊജക്ഷൻ നീളം നമുക്ക് ഇത് കുറിക്കാം ഇതാണ് ലംബ തലം ഇതൊരു തിരശ്ചീന തലം നമുക്ക് താൽപ്പര്യമുള്ളത് പ്രൊജക്റ്റഡ് ദൈർഘ്യമാണ് അവ എത്രയാണ് നമ്മൾ അത് അളക്കുകയാണെങ്കിൽ അത് 61 2 3 4 64 യൂണിറ്റുകളായിരിക്കും അതിനാൽ 64 യൂണിറ്റുകൾ നമ്മൾ ഇത് അടയാളപ്പെടുത്തണം അതിനാൽ ഇത് ab ലൈനിന് സമാന്തരമായിരിക്കും ഇത് നമ്മുടെ 64 യൂണിറ്റുകളും ആയിരിക്കും അതുപോലെ a'b ലൈൻ ഇത് 39 യൂണിറ്റാണ് അതിനാൽ സമാന്തരമായി നമ്മൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇത് 39 ആയിരിക്കും അതിനാൽ ഒരു ലൈൻ ലംബ തലം തിരശ്ചീന തലം plane എന്നിവയിലേക്ക് ചെരിഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഈ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും നിർമ്മിക്കുന്നതിന് ഇത്തരത്തിലുള്ള പ്രൊജക്ഷനുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് അടുത്ത ക്ലാസിൽ കൂടുതൽ പ്രശ്നങ്ങൾ നോക്കാം